ബ്ലാക്ക് ബോഡി റേഡിയേഷൻ V വെയ്നിന്റെ ഡിസ്പ്ലേസ്മെന്റ് നിയമവും സ്പെക്ട്രൽ ഡെൻസിറ്റിയ്ക്കുള്ള വിശകലനവും ഈ പ്രഭാഷണത്തിൽ നമ്മൾ വീനിന്റെ ഫോർമുലാസ് Wiens formula ഉരുവിടാൻ പോകുന്നു പ്രത്യേകിച്ചും നമ്മൾ വീനിന്റെ ഡിസ്പ്ലേസ്മെന്റ് നിയമവുംWiens displacement law വീനിന്റെ വിതരണവും Wiens distribution law നോക്കാൻ പോകുന്നു രണ്ടും തെർമോഡൈനാമിക്സ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പോലെ തെർമോഡൈനാമിക് പരസ്പര പ്രവർത്തനത്തിന്റെ വിശദാംശങ്ങളെക്കുറിച്ച് ശരിക്കും ശ്രദ്ധിക്കുന്നില്ല ഇതൊരു മാക്രോസ്കോപ്പിക് സിദ്ധാന്തമാണ് നമുക്ക് വീനിന്റെWeins ഈ മനോഹരമായ വാദങ്ങൾ നോക്കാം സ്പെക്ട്രൽ ഡെൻസിറ്റിയുടെ ഡിസ്ട്രിബൂഷൻനുള്ള യഥാർത്ഥ ഫോർമുല ലഭിക്കുന്നതിന് അദ്ദേഹം വളരെ അടുത്തെത്തി ഈ കണ്ടെത്തലിന് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചു അതിനാൽ ആദ്യത്തെ കാര്യം വീനിന്റെ ഡിസ്പ്ലേസ്മെന്റ് നിയമമാണ്wiens displacement law ഇതിനായി അദ്ദേഹം ഒരു സ്ഫെറിക്കാലയുള്ള ക്യാവിറ്റി കണക്കാക്കി ഇത് വളരെ സാവധാനത്തിൽ വികസിക്കുകയോ ചുരുങ്ങുകയോ ചെയ്യുന്നുവെന്ന് നമുക്ക് പറയാം വളരെ ചെറിയ വേലോസിറ്റി v അത് ചെറിയ വേലോസിറ്റി v കൊണ്ട് ഒന്നുകിൽ ആയിരിക്കാം അതിനാൽ ഒരു ക്യാവിറ്റിയുടെ അഡിയാബാറ്റിക് വികാസത്തെ അദ്ദേഹം പരിഗണിച്ചു അത് സ്ഫെറിക്കാലയുള്ള ക്യാവിറ്റിയുടെസ്ഫെറിക്കൽ cavity അഡിയബാറ്റിക് വികാസമാണ് അഡിയാബാറ്റിക് എന്നാൽ T ട്ടെമ്പേറെചർയിൽ 0 ആയിരുന്ന താപ വിനിമയം നിങ്ങളെ വലിക്കും നമ്മൾ നേരത്തെ കണ്ടത് എനിക്ക് ഇതുപോലൊരു ക്യാവിറ്റിയുണ്ടെങ്കിൽ ശരിയാണ് അത് സമ്മർദ്ദം ചെലുത്തുന്ന P എന്ന ഒരു മർദ്ദം പ്രയോഗിക്കുന്നു അത് സന്തുലിതാവസ്ഥയിൽ നിലനിർത്തിക്കൊണ്ട് വികസിക്കാൻ അനുവദിക്കുമ്പോൾ അതിനാൽ ഞാൻ അതിൽ കുറച്ച് ശക്തി പ്രയോഗിക്കും അതിനാൽ അത് പ്രവർത്തിക്കുന്നു അതിനാൽ ക്യാവിറ്റി വികസിക്കുമ്പോൾ ക്യാവിറ്റിയ്ക്കുള്ളിലെ ക്യാവിറ്റി അല്ലെങ്കിൽ കൂടുതൽ ഉചിതമായ റേഡിയേഷൻ പ്രവർത്തിക്കുന്നു അതിനാൽ ക്യാവിറ്റി വികസിക്കുമ്പോൾ അത് പ്രവർത്തിക്കുന്നു അത് പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന്റെ ഇന്റെർണൽ എനർജിക്ക് എന്ത് സംഭവിക്കണം ഇത് സൂചിപ്പിക്കുന്നത് ഇന്റെർണൽ എനർജി u ചെറുതായിത്തീരുന്നു കാരണം ഈ എനർജിയുടെ ചെലവിൽ ജോലി ചെയ്യപ്പെടുന്നു കാരണം താപം വിതരണം ചെയ്യപ്പെടുന്നില്ല ഇത് സൂചിപ്പിക്കുന്നത് ട്ടെമ്പേറെചർ കുറയുന്നു വോളിയം വർദ്ധിക്കുന്നു ട്ടെമ്പേറെചർ കുറയുന്നു അതേ സമയം റേഡിയസ് കുറയുകയാണെങ്കിൽ ഞാൻ എനർജി പമ്പ് ചെയ്യുന്നതിനാൽ ഞാൻ അത് കംപ്രസ്സു ചെയ്യുകയാണെങ്കിൽ ട്ടെമ്പേറെചർ ഉയരും കാരണം വികസിക്കുമ്പോൾ ഉള്ളിലെ റേഡിയേഷൻ ക്യാവിറ്റിയ്ക്ക് ചുറ്റും കുതിക്കുന്നതിനാൽ കൂടുതൽ എന്തെങ്കിലും സംഭവിക്കുന്നു അതിനാൽ ചലിക്കുന്ന ഭിത്തിയിൽ നിന്ന് പ്രകാശമോ ശബ്ദമോ പ്രതിഫലിക്കുകയാണെങ്കിൽ അതിന്റെ വെവേലെങ്ത്തിലും അതിന്റെ ഫ്രക്വൻസിയിലും മാറ്റം വരുന്നു പന്ത്രണ്ടാം ക്ലാസ് ഭൌതികശാസ്ത്രത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ചത് ഓർക്കുക അതിനാൽ ലാംഡയിലെ ഏത് പ്രകാശവും ബൌൺസ് ചെയ്യുമ്പോൾ അത് λ വർദ്ധിക്കും കാരണം ഫ്രക്വൻസി കുറയുന്നു അതിനാൽ ഈ അഡിയബാറ്റിക് വിപുലീകരണം പഠിക്കുന്നതിലൂടെ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടെന്നും ആ ലാംഡ ടിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും എനിക്ക് വിവരിക്കാൻ കഴിയും അതാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞു അവസാനിപ്പിച്ചത് അടുത്തതായി ഞങ്ങൾ അത് ചെയ്യാൻ പോകുന്നു അതിനാൽ നമുക്ക് ഇപ്പോൾ നോക്കാം ഈ ക്യാവിറ്റിയിൽ r റേഡിയസ് ഉള്ളപ്പോൾ ഈ മാറ്റങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു മധ്യത്തിൽ നിന്ന് പ്രകാശകിരണങ്ങൾ പോകുമ്പോൾ ഞാൻ ഇതിന് ലംബമായി വരച്ചാൽ അത് അടിക്കുന്ന കോൺ തീറ്റയാണ് ഇത് വീണ്ടും ചെറുതായി പ്രതിഫലിക്കുന്നു ഇത് അങ്ങനെയായിരിക്കും π2 θ അങ്ങനെ ഈ ആംഗിൾ ഞാൻ ഇവിടെ വീണ്ടും വൃത്തിയായി ഉണ്ടാക്കട്ടെ അതിനാൽ പ്രകാശകിരണം കടന്നുപോകുന്നു ഇത് ഒരു കേന്ദ്രമാണ് ഈ കോൺ തീറ്റയാണ് പ്രകാശകിരണം ഇതുപോലെ പ്രതിഫലിക്കുന്നു കൂടാതെ ഈ ദിശയിൽ ദ്വാരം വേലോസിറ്റി v യിൽ വികസിക്കുന്നു ഇപ്പോൾ വെവെലെങ്ത്തിൽ മാറ്റം നൽകുന്നത് ഡോപ്ലറിന്റെ ഫോർമുലയാണ് v എന്നത് c യേക്കാൾ വളരെ കുറവാണ് അതിനാൽ ∆λλ2vsinθ c v യുടെ ഘടകം പ്രകാശത്തിന്റെ ദിശയിലേക്കാണ് എടുക്കാൻ പോകുന്നത് അത് vsinθ ആണ് അതിനാൽ ഇത് 2vsinθ c ആയിരിക്കും അതിനാൽ ഇത് Δ λ2vsinθ c പ്രതിഫലനം ആയിരിക്കും അതിനാൽ ഓരോ പ്രതിഫലനത്തിലും ഇത് വെവെലെങ്ത്തിലെ മാറ്റമാണ് ഈ 2 ട്ടെമ്പേറെചർ മാറ്റവുമായി ഞാൻ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു ട്ടെമ്പേറെചർ വ്യതിയാനം എങ്ങനെ കണക്കാക്കാം അതിനാൽ ട്ടെമ്പേറെചർ മാറുന്നതിന്റെ കണക്കുകൂട്ടലുകൾ ΔQ ΔU p ΔV എന്ന് പറയുന്ന തെർമോഡൈനാമിക്സിന്റെ ആദ്യ നിയമം ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഒരു അഡിയാബാറ്റിക് എക്സ്പാൻഷൻ എടുക്കുകയാണ് അതിനാൽ ഇത് 0 ആണ് അതിനാൽ ΔU എന്നത് − p ΔV ന് തുല്യമായിരിക്കും അത് എനിക്ക് u34 π r2 Δr എന്ന് എഴുതാം ഇവിടെ r എന്നത് ക്യാവിറ്റിയുടെ റേഡിയസ് ΔU ഒന്നുമല്ല എന്നാൽ പോകുന്ന ΔuV ആണ് Δu V u ΔV ആകാൻ അത് Δu V u 4 π r2 ആണ് അതിനാൽ നമുക്ക് ഇടതുവശത്ത് ഇതെല്ലാം ഒരുമിച്ച് ശേഖരിക്കാം നമുക്ക് Δu V ആണ് 4π3r3u 4 π r2 Δr u3 4 π r2 Δr ശരി ഇപ്പോൾ എനിക്ക് എഴുതാം ഈ 4 π r2 എല്ലാത്തിൽ നിന്നും 4 π r2 4 π r2 4 π r2 വഴി റദ്ദാക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ∆ur3 4u3 Δr ലഭിക്കും അതിനാൽ ഇത് നമ്മൾക്ക് ലഭിച്ച ഒരു ഫലമാണ് അത് ഞാൻ അടുത്ത സ്ലൈഡിലേക്ക് കൊണ്ടുപോകും അതിനാൽ നമുക്ക് ∆ur3 4u3 Δr ലഭിച്ചു ഇത് 3 റദ്ദാക്കുകയും എനിക്ക്∆uu 4rΔr ലഭിക്കുകയും ചെയ്യുന്നു Δu ∝ 4T³ΔT യെ സൂചിപ്പിക്കുന്ന u എന്നത് T⁴ ന് ആനുപാതികമാണെന്ന് ഇപ്പോൾ എനിക്കറിയാം ഞാൻ അത് പകരം വയ്ക്കുകയാണെങ്കിൽ എനിക്ക് ∆uu4T³∆TT⁴ ലഭിക്കും ഏത് അതിനാൽ ഇതെല്ലാം കൂടിച്ചേർന്നതിൽ നിന്ന് എനിക്ക് 4∆TT 4∆rr ലഭിക്കുന്നു ഇതിൽ നിന്ന് 4 റദ്ദാക്കുകയും എനിക്ക് ∆TT ∆rrdTT drr ലഭിക്കുന്നന്നു ഇത് അർത്ഥമാക്കുന്നത് Trസ്ഥിരതയാണ് എന്നാണ് റേഡിയസ് ഉയരുമ്പോൾ ട്ടെമ്പേറെചർ കുറയുന്നു അതിനാൽ നമ്മൾക്ക് അനുബന്ധ ട്ടെമ്പേറെചർയും റേഡിസും ഉണ്ട് ഓരോ റീഫ്ലക്ഷനും Δ λ 2λvsinθ c കണ്ടെത്തി λ T എന്നിവയുമായി ബന്ധപ്പെടുത്താൻ ഇതു രണ്ടും നമ്മൾ സംയോജിപ്പിക്കുന്നു അത് എങ്ങനെ ചെയ്യുന്നുവെന്ന് നോക്കാം∆λλι2vsinθc പെർ റീഫ്ലക്ഷൻ ഇപ്പോൾ ഓരോ റീഫ്ലക്ഷനും പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം റേഡിയസ് r ആണെങ്കിൽ ഓരോ റീഫ്ലക്ഷനും സമയം 2 r sinθ ആണ് കാരണം ഇത് r ആണ് അതിനാൽ ഇത് rsinθ ഇതാണ് rsinθ അതിനാൽ 2rsinθ c തവണ ഓരോ റീഫ്ലക്ഷനും എന്നത് 2rsinθ c തന്നെ ആണ് അതിനാൽ ഈ സമയത്ത് ക്യാവിറ്റിയുടെ ഭിത്തികൾ സഞ്ചരിക്കുന്ന ദൂരം Δr ന് തുല്യമായിരിക്കും അത് 2rsinθc v ന് തുല്യമാണ് അതിനെ എനിക്ക് 2vsinθc r എന്ന് എഴുതാം ഇത് സൂചിപ്പിക്കുന്നത് 2 vsinθc v എന്നത് എന്നിക്കു ∆rr ആയി എഴുതാം എന്നാണ് ഇപ്പോൾ ഞാൻ ഈ ഫോർമുലയിൽ ഇത് മാറ്റിസ്ഥാപിക്കുകയും ∆λλ എന്നത് ∆rr അല്ലെങ്കിൽ dλλdrr ന് തുല്യമാണ് ഇത് ഉടൻ നൽകുന്നു നിങ്ങൾ λr കോൺസ്റ്റന്റ് ആണ് എന്നുള്ളതാണ് നമുക്ക് പരിശോധിക്കാം λcr dλcλdrcrdλλcdrcr എന്നത് drr ആണെന്ന് അതിനാൽ ഈ പരിശോധനയിൽ λrസ്ഥിരമാണ് അപ്പോൾ നമുക്ക് എന്താണ് ലഭിച്ചത് നമുക്ക് Trകോൺസ്റ്റന്റ് ലഭിച്ചു നമുക്ക് ഇതിനെ c₁ എന്ന് വിളിക്കാം കൂടാതെ λrസ്ഥിരമായ ഏതെങ്കിലുമൊരു c₂ എന്നതും ഇപ്പോൾ ലഭിച്ചു നമുക്ക് 2 ഉം സംയോജിപ്പിച്ച് രണ്ട് സമവാക്യങ്ങളും ഗുണിക്കാം ഈ സമവാക്യം 1 ഉം ഈ സമവാക്യവും 2 ഇത് എന്നോട് പറയുന്നു Tλസ്ഥിരം എന്നാണ് എന്താണിതിനർത്ഥം ഇതിനർത്ഥം ഈ ക്യാവിറ്റിയിൽ വികസിക്കുമ്പോൾ റേഡിയേഷൻ സന്തുലിതാവസ്ഥയിൽ തുടരുന്നു എന്നാണ് ഇത് T₁ ൽ നിന്ന് T₂ ലേക്ക് പോകുന്നു ഞാൻ ഒരു പ്രത്യേക വെവെലെങ്ത് നോക്കി അതിനെ പിന്തുടരുകയാണെങ്കിൽ ഈ ലാംഡ λ₁ ൽ നിന്ന് λ₂ ലേക്ക് മാറുന്നു അത് T₁ λ₁ T₂ λ₂ ആയിരിക്കും ഈ λ വികിരണത്തിന്റെ ചില പ്രത്യേകതകളുമായി പൊരുത്തപ്പെടണം അതിനാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സവിശേഷത λ എന്നത് λ മാക്സ് ആണെന്നാണ്തിരിച്ചറിയാൻ തിരഞ്ഞെടുത്ത ഈ ഫീച്ചർ പിന്നീട് ഞങ്ങൾ λmax T കോൺസ്റ്റന്റ് എന്ന് എഴുതുന്നു ഇത് നടത്തിയ പരീക്ഷണങ്ങളിലൂടെ സ്ഥിരീകരിക്കുകയും λmax T 2900 μmK എന്ന ക്രമത്തിലാണെന്ന് അവർ കണ്ടെത്തി അതിനാൽ ഇത് സ്ഥിരീകരിച്ചു അതിനാൽ വീനിന്റെ weins വിശകലനം ശരിയായിരുന്നു ദൂര നക്ഷത്രങ്ങളുടെ ഊഷ്മാവ് കണക്കാക്കാനും ഈ വിശകലനം ആദ്യമായി ഉപയോഗിച്ചു അത് പോലെയുള്ള കാര്യങ്ങൾ അവയുടെ സ്പെക്ട്രത്തിൽ λmax എവിടെയാണെന്ന് കണ്ടെത്തി അത് ഈ ഫോർമുലയിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ ആ നക്ഷത്രത്തിന്റെ ട്ടെമ്പേറെചർ കണ്ടെത്തണം രണ്ടാമത്തേത് കൂടുതൽ പ്രധാനമാണ് ഇതിനായി വീൻ പരിഗണിച്ചത് ഉയർന്ന ട്ടെമ്പേറെചർ T₁ രൂപപ്പെടുമ്പോൾ ഞാൻ താഴ്ന്ന ട്ടെമ്പേറെചർ T₂ ലേക്ക് പോകുകയാണെങ്കിൽ 2 റേഡിയേഷൻ മാറ്റുമ്പോൾ λ λΔλ എന്നിവയ്ക്കിടയിൽ അടങ്ങിയിരിക്കുന്ന റേഡിയേഷൻ ഡിസ്പ്ലേസ്മെന്റ് ഫോർമുല ചില λ λ Δ λ എനർജി ഉള്ളടക്കം ആദ്യ സന്ദർഭത്തിൽ T₁ uλ Δ λ ആയിരുന്നു ഇത് എനർജി ഉള്ളടക്കമായി മാറി uλΔλ ആയ രണ്ടാമത്തെ സാഹചര്യത്തിൽ ഇത് T₂ ട്ടെമ്പേറെചർറിലായിരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കണം അതിനാൽ നമുക്കുള്ളത് uλT₁ Δ λ uλT₂ Δ λ എന്നതിലേക്ക് പോയി എന്നതാണ് എന്നിരുന്നാലും ഊർജത്തിന്റെ ഉള്ളടക്കം T4 ന് ആനുപാതികമാണെന്ന് എനിക്കറിയാം എനർജി ഡെൻസിറ്റിയുടെ ഒരു അനുപാതമല്ല എനർജി ഉള്ളടക്കമാണ് ഞാൻ എടുക്കാൻ പോകുന്നത് അതിനാൽ എനിക്ക് uλT₁ ∆λT₁⁴T²∆λ'λT⁴₁uλ' അത് സ്റ്റെഫാൻ ബോൾട്ട്സ്മാൻ നിയമപ്രകാരമുള്ള അനുപാതമായിരിക്കണം ഞങ്ങൾ ഊഹിക്കുന്നത് സ്റ്റെഫാൻ ബോൾട്ട്സ്മാൻ നിയമം ചെറിയ ഇടവേളകളിലെ എനർജി ഉള്ളടക്കത്തിന് പോലും ബാധകമാണ് ശരിയാണ് പക്ഷേ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുമെന്നും അവ പൊരുത്തപ്പെടുന്നെങ്കിൽ നിങ്ങൾ ശരിയായ പാതയിലാണെന്നും നിങ്ങൾക്കറിയാം അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ബന്ധം ഉണ്ട് ഇപ്പോൾ ശ്രദ്ധിക്കുക λ T 1 λ T ₂ λ Δ λT λ Δ λT ഇത് നിങ്ങൾക്ക് ഉടനടി നൽകുന്നു ഇത് ഒരുമിച്ച് നിങ്ങൾക്ക് Δ λ T 1Δ λ T₂ നൽകുന്നു ഈ സമവാക്യത്തിൽ ഞങ്ങൾ ഇത് മാറ്റിസ്ഥാപിക്കും ഞാൻ u ലഭിക്കാൻ പോകുന്നു Δ λ ആനുപാതികമായി 1T₁T₁⁴ തുല്യമായിരിക്കും വരെ T₂1T₂⁵uλ അതിനാൽ ഈ വക്രത്തിന്റെ വിശകലനത്തിലൂടെയും ലാംഡ മാറുന്ന രീതിയിലൂടെയും uλΤ1T⁵u പോലെ തന്നെയാണെന്ന് ഞങ്ങൾ കണ്ടെത്തി ഞാൻ ഇതിനെ uλT'1T⁵ എന്ന് വിളിക്കാം ഇപ്പോൾ T λസ്ഥിരമാണെന്നും എനിക്കറിയാം അതിനാൽ ഇത് സൂചിപ്പിക്കുന്നത് uλλ5u T'λ 5 ഇത് ഒരു സ്ഥിരവും ശരിയുമാണ് അതിനാൽ ഈ വിശകലനത്തിലൂടെ നമുക്ക് ലഭിച്ചത് uλλ5uT'λ5 എന്നത് ഒരു സ്ഥിരാങ്കമാണ് ഏതുതരം സ്ഥിരമായിരിക്കുമെന്ന് എനിക്കറിയാം വ്യക്തമായുംuλλട്ടെമ്പേറെചർ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഈ സ്ഥിരാങ്കം ഞാൻ ചില ഫംഗ്ഷൻ f Tλ ആയി എഴുതാൻ പോകുന്നു കാരണം നിങ്ങൾ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ λT മാറില്ല അതിനാൽ നിങ്ങൾ ഈ ക്യാവിറ്റിയുടെ വലുപ്പം വർദ്ധിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് ബോഡി റേഡിയേഷനിൽ നിന്ന് മറ്റൊന്നിലേക്ക് ട്ടെമ്പേറെചർ മാറ്റുകയാണെങ്കിൽ അതിനാൽ ഇത് ഏറ്റവും സാധാരണമായ രൂപത്തിൽ ഒരു f T λ ആയിരിക്കും അല്ലാത്തപക്ഷം അത് ഉടനീളം സ്ഥിരമായിരിക്കുമായിരുന്നു എന്നാൽ അത് നിങ്ങൾക്ക് λ T എന്നിവയുടെ ഒരു ഫംഗ്ഷൻ ആയി നൽകില്ല അതിനാൽ ഞങ്ങൾ ഇത് ഇട്ടു u ചില fTλλ⁵ രൂപത്തിലുള്ളതാണെന്ന് ഇത് ഉടൻ തന്നെ നിങ്ങളോട് പറയുന്നു ഇത് വെയൻ ന്റെ വിതരണമാണ്weins distribution uλ Δ λuν Δν എന്നതിനാൽ നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ എന്നും ഇത് നിങ്ങളോട് പറയുന്നു എന്റെ മുൻ പ്രഭാഷണം മുമ്പത്തെ പ്രഭാഷണങ്ങളിലൊന്ന് ഞങ്ങൾക്ക് uλ v²cuᵥ എന്ന് ലഭിച്ചു അതിനാൽ uλ എന്നത് fλTλ⁵ ആണ് അത് fλT എന്ന് എഴുതാം ഇത് സൂചിപ്പിക്കുന്നത് മറ്റ് ചില ഫംഗ്ഷൻ gvT രൂപത്തിലാണ് ഞാൻ λ യെ എഴുതിയത് cλഅതാണ് T v യെ gvTv³ എന്നും എഴുതാം അതിനാൽ വീൻweins ഉരുത്തിരിഞ്ഞ 2 രൂപങ്ങളാണിവ വീൻ ഉരുത്തിരിഞ്ഞതാണ് ഞാൻ വശത്ത് എഴുതാൻ പോകുന്ന പ്രധാന കാര്യം ഞങ്ങളുടെതാണ് നമുക്ക് ലഭിച്ചത് λ T എന്നത് ഒരു സ്ഥിരാങ്കവും uλλ5 എന്നത് ഓരോ λ എന്നതിനും ഒരു സ്ഥിരാങ്കവുമാണ് അതിനാൽ വ്യത്യസ്ത λ യ്ക്ക് ഒരു പ്രത്യേക ട്ടെമ്പേറെചറായി എനിക്ക് എക്സ്പീരിമെന്റൽ കർവ് നൽകിയാൽ എനിക്ക് എല്ലായ്പ്പോഴും മറ്റേതെങ്കിലും ട്ടെമ്പേറെചറിൽ കർവ് കണ്ടെത്താനാകും കാരണം ട്ടെമ്പേറെചർ മാറുന്നതിനനുസരിച്ച് ഈ ഫോർമുലക്ക് തുല്യമായ λ ഞാൻ കണ്ടെത്തും അത് പറയുന്നത് uλλ⁵uλT'λ⁵ എനിക്ക് uλT കണ്ടെത്താം അതിനാൽ ഒരു പ്രത്യേക ഊഷ്മാവിൽ എക്സ്പീരിമെന്റൽ കർവ് സ്പെക്ട്രൽ ഡെൻസിറ്റിയ്ക്കുള്ള എക്സ്പീരിമെന്റൽ കർവ് വീനിന്റെ ഫോർമുലയുടെwiens formula ഉപയോഗപ്രദമായ മറ്റേതൊരു ട്ടെമ്പേറെചറിലും എനിക്ക് ഈ സ്പെക്ട്രൽ ഡെൻസിറ്റി കണ്ടെത്താനാകും അടുത്ത കുറച്ച് പ്രഭാഷണങ്ങളിൽ നമ്മൾ അതിനെ കൂടുതൽ വിശകലനം ചെയാം